എഞ്ചിനീയർമാർക്കുള്ള ഡാറ്റാ സയൻസ് കോഴ് സിന്റെ ആർ മൊഡ്യൂളിലെ 7 ലെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ആർ യിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ഫംഗ്ഷനുകൾ എങ്ങനെ ലോഡുചെയ്യാം അല്ലെങ്കിൽ ഉറവിടമാക്കാം എങ്ങനെ ഫംഗ്ഷനുകൾ വിളിക്കാം അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാം എന്നിവ ഞങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു ചില ജോലികൾ നിരവധി തവണ നിർവഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പ്രവർത്തനങ്ങൾ ഉപയോഗപ്രദമാണ് ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ആർഗ്യുമെന്റുകൾ സ്വീകരിച്ച് ഫംഗ്ഷനുള്ളിലെ സാധുവായ ആർ കമാൻഡുകൾ നടപ്പിലാക്കുന്നതിലൂടെ ഔട്ട്പുട്ട്നിർമ്മിക്കുന്നു R ൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ സൃഷ്ടിക്കുമ്പോൾ ഫംഗ്ഷൻ പേരും നിങ്ങൾ പ്രവർത്തനം സൃഷ്ടിക്കുന്ന ഫയലും സമാനമായിരിക്കണമെന്നില്ല കൂടാതെ നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ ഫംഗ്ഷൻ നിർവചനങ്ങൾ ഉണ്ടായിരിക്കാം ഒരൊറ്റ ആർ ഫയൽ കമാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ആർ ൽ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഫംഗ്ഷൻ ഫയലിന്റെ പൊതുവായ ഘടന ഇനിപ്പറയുന്ന രീതിയിൽ ആർഗ്യുമെന്റുകളുടെ പ്രവർത്തനം തുടർന്ന് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ ആവശ്യമായ പ്രസ്താവനകൾ ഉണ്ട് നിങ്ങൾ ഈ കമാൻഡ് എഴുതുമ്പോൾ ഈ ഫംഗ്ഷന്റെ പേരാണ് ഇതിനർത്ഥം നിങ്ങൾ ചില ആർഗ്യുമെന്റുകൾ എടുക്കുകയും ഇനിപ്പറയുന്ന പ്രസ്താവനകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന പേര് f ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ സൃഷ്ടിക്കുന്നു എന്നാണ് ഒരു ഫംഗ്ഷൻ ഫയൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു ഫംഗ്ഷൻ ഫയൽ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ ഇതിനകം കണ്ട ഒരു ആർ സ്ക്രിപ്റ്റ് തുറക്കുന്നതിന് സമാനമാണ് നിങ്ങൾക്ക് ഒന്നുകിൽ ടൂൾബാറിലെ ഫയൽ ബട്ടൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ആർ സ്ക്രിപ്റ്റ് സൃഷ്ടിക്കുന്നതിന് ഫയൽ ടാബിന് തൊട്ടുതാഴെയായി ബട്ടൺ ഉപയോഗിക്കാം നിങ്ങൾ ഒരു ആർ സ്ക്രിപ്റ്റ് സൃഷ്ടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പേരിലും സംരക്ഷിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഞങ്ങൾ ആർ ഫയൽ വോളിയം സിലിണ്ടറായി സംരക്ഷിച്ചു ഇപ്പോൾ നിങ്ങൾ സംരക്ഷിച്ചുകഴിഞ്ഞാൽ ഫംഗ്ഷനുകൾ എഴുതാൻ തയ്യാറാണ് ഇപ്പോൾ ഒരു സിലിണ്ടറിന്റെ അളവ് കണക്കാക്കുന്ന ഒരു പ്രവർത്തനം സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് വ്യാസവും നീളവും വാദങ്ങളിൽ എടുക്കുന്നു അതിനാൽ ഒരു പ്രവർത്തനം സൃഷ്ടിക്കുന്നതിന് നെയിം വോളിയം സിലിണ്ടർ ഉപയോഗിച്ച് എനിക്ക് വോളിയം സിലിണ്ടർ ഫംഗ്ഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഫംഗ്ഷനും പാസാക്കേണ്ട ആർഗ്യുമെന്റുകളും സിലിണ്ടറിന്റെ വ്യാസവും നീളവുമാണ് സിലിണ്ടർ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ സ്ഥിരസ്ഥിതി ആർഗ്യുമെന്റുകളായി ഞങ്ങൾ 5 100 മൂല്യങ്ങളുടെ ഈ മൂല്യങ്ങൾ കൈമാറുന്നു നിങ്ങൾക്ക് വ്യാസവും നീളവും ലഭിച്ചുകഴിഞ്ഞാൽ π d squar l ഫോർമുല 4 ഉപയോഗിച്ച് വോളിയം കണക്കാക്കാം തുടർന്ന് നിങ്ങൾ മടങ്ങേണ്ടത് വോളിയം വേരിയബിളാണ് അത് ഉള്ളിൽ കണക്കാക്കുന്നു പ്രവർത്തനം ഒരു ഫംഗ്ഷൻ ഫയലിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആർ സ്റ്റേറ്റ് മെന്റുകൾ നിങ്ങൾ എഴുതിയുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ സംരക്ഷിക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ ഇത് വോളിയം സിലിണ്ടർ ഡോട്ട് ആർ ആയി സംരക്ഷിക്കുന്നു ഒരിക്കൽ നിങ്ങൾ ഇത് സംരക്ഷിച്ചുകഴിഞ്ഞാൽ അതിനാൽ നിങ്ങൾ അവ R ൽ അഭ്യർത്ഥിക്കുന്നതിനോ എക്സിക്യൂട്ട് ചെയ്യുന്നതിനോ മുമ്പ് നിങ്ങൾ ഫംഗ്ഷനുകൾ ലോഡുചെയ്യേണ്ടതുണ്ട് ഒരു ഫംഗ്ഷൻ ലോഡുചെയ്യുന്നതിന് ആർ സ്ക്രിപ്റ്റ് മെനുവിൽ ലഭ്യമായ ഉറവിട ബട്ടണിൽ ക്ലിക്കുചെയ്യേണ്ടതുണ്ട് ഉറവിട ബട്ടണിൽ ക്ലിക്കുചെയ്യുന്നത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല ഇത് ഫംഗ്ഷൻ ഫയൽ ലോഡ് ചെയ്യുകയും അത് അഭ്യർത്ഥിക്കാൻ തയ്യാറാക്കുകയും ചെയ്യും നിങ്ങൾ ഫംഗ്ഷൻ ലോഡുചെയ്തുകഴിഞ്ഞാൽ വേരിയബിൾ v ൽ വോളിയം സംരക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾക്ക് കൺസോളിൽ നിന്ന് ഫംഗ്ഷൻ അഭ്യർത്ഥിക്കാം തുടർന്ന് നിങ്ങൾ ഈ ഫംഗ്ഷൻ വോളിയം സിലിണ്ടറിനെ 5 ആർഗ്യുമെന്റുകൾ ഉപയോഗിച്ച് വിളിക്കുന്നു 10 അതിനാൽ ഇത് വോളിയം കണക്കാക്കുന്നതിനും വോളിയം നൽകുന്നതിനുമുള്ള പ്രവർത്തനം പ്രവർത്തിപ്പിക്കും വേരിയബിൾ ബ്ര browser സറിൽ നിങ്ങൾക്ക് വോളിയത്തിന്റെ മൂല്യവും കാണാൻ കഴിയും ഡയയും നീളവും ഉപയോഗിച്ച് ഫംഗ്ഷൻ വോളിയം സിലിണ്ടർ രണ്ട് ആർഗ്യുമെന്റുകൾ ലഭ്യമാണ് എന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് ആർഗ്യുമെന്റുകൾ ഫംഗ്ഷനിലേക്ക് കൈമാറാൻ നിരവധി മാർഗങ്ങളുണ്ട് സാധാരണയായി ആർ ൽ ആർ ആർ ഗ്യുമെൻറുകൾ ഫംഗ്ഷൻ നിർവചനത്തിലെ അതേ ക്രമത്തിൽ ഫംഗ്ഷനിലേക്ക് കൈമാറുന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഡറും പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഏത് ഓർഡറിലും ആർഗ്യുമെന്റുകളുടെ പേരുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർഗ്യുമെന്റുകൾ കൈമാറാൻ കഴിയും എന്നതാണ് ആർ ഗ്യുമെൻറുകൾ പാസാക്കിയില്ലെങ്കിൽ പ്രവർ ത്തനം നടപ്പിലാക്കുന്നതിന് സ്ഥിരസ്ഥിതി മൂല്യങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ 5 10 എന്നീ ആർഗ്യുമെന്റുകൾ നിങ്ങൾ കടന്നുപോകുമ്പോൾ ഈ ഓരോ കേസുകളുടെയും ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ആദ്യ ആർഗ്യുമെന്റ് വ്യാസവും രണ്ടാമത്തെ ആർഗ്യുമെൻറ് ഫംഗ്ഷന്റെ നിർവചനം അനുസരിച്ച് നീളമുള്ളതുമാണ് അതിനാൽ ഇത് അതേ രീതിയിൽ തന്നെ എടുക്കും എന്നാൽ ഒരു ഓർഡറും പാലിക്കാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓർഡറിലും പേരുകൾ വഴി വാദങ്ങൾ കൈമാറാൻ കഴിയും അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നീളം 10 ഉം വ്യാസവും 5 വ്യക്തമാക്കുന്ന ആദ്യ വാദമായി നീളം കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആർഗ്യുമെന്റുകൾ പാസാക്കിയാലും ഫലം ഒന്നുതന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ കഴിയും വ്യത്യസ്ത ഓർഡർ അതിനാൽ വാദത്തിന്റെ പേര് വ്യക്തമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് ക്രമത്തിലും വാദങ്ങൾ കൈമാറാൻ കഴിയും എന്നതാണ് ഓർമ്മിക്കുക നിങ്ങൾ ഇവിടെ ആർഗ്യുമെന്റുകളൊന്നും പാസാക്കാത്തപ്പോൾ സ്ഥിരസ്ഥിതി വ്യാസവും നീളവും ഉള്ള 5 100 ന്റെ സ്ഥിരസ്ഥിതി മൂല്യങ്ങൾ എടുത്ത് വോളിയം കണക്കാക്കുന്നു R ൽ ഫംഗ്ഷനുകൾ അലസമായ രീതിയിൽ നടപ്പിലാക്കുന്നു ചില ആർ ഗ്യുമെൻറുകൾ നഷ് ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർ ത്ഥമെന്ന് ഞങ്ങൾ മടിയനായി പറയുമ്പോൾ എക്സിക്യൂഷനിൽ ആ ആർ ഗ്യുമെൻറുകൾ ഉൾ പ്പെടാത്ത കാലത്തോളം പ്രവർ ത്തനം ഇപ്പോഴും നടപ്പിലാക്കുന്നു ഇതിന് ഞങ്ങൾ ഒരു ഉദാഹരണം കാണും ഫംഗ്ഷനിൽ ഒരു അധിക ആർഗ്യുമെൻറ് ദൂരം ഞങ്ങൾ ഇപ്പോൾ നിർവചിച്ച അതേ ഫംഗ്ഷനുണ്ട് കൂടാതെ വോളിയം കണക്കുകൂട്ടലിൽ ഈ കണക്കുകൂട്ടലിൽ ഈ ആർഗ്യുമെന്റ് ദൂരം ഉൾപ്പെടുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഈ ആർഗ്യുമെന്റുകൾ ഡയയും നീളവും കടന്നുപോകുമ്പോൾ നിങ്ങൾ ഈ ദൂരം കടന്നുപോകുന്നില്ലെങ്കിലും ഫംഗ്ഷൻ ഇപ്പോഴും നടപ്പിലാക്കും കാരണം ഫംഗ്ഷനുള്ളിലെ കണക്കുകൂട്ടലുകളിൽ ഈ ദൂരം ഉപയോഗിക്കുന്നില്ല എന്നാൽ ആർ മതിയായ ബുദ്ധിമാനാണ് നിങ്ങൾ ആർഗ്യുമെൻറ് പാസാക്കുന്നില്ലെങ്കിൽ അത് ഫംഗ്ഷന്റെ നിർ വ്വചനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റാഡ് പാസാക്കുന്നില്ലെന്നും അത് ഉപയോഗിക്കുമെന്നും പറയുന്ന ഒരു പിശക് അത് എറിയും ഫംഗ്ഷൻ നിർവചനം ചുരുക്കത്തിൽ ആർ എക്സിക്യൂട്ടിംഗ് എന്നിവയിൽ ഒരു ഫംഗ്ഷൻ ഫയൽ സൃഷ്ടിക്കുന്നതിനുള്ള ഘട്ടങ്ങളാണിവ ആദ്യം ഈ ഫാഷൻ ഫംഗ്ഷൻ നാമത്തിലെ പ്രവർത്തനം നിർവചിക്കേണ്ട ടൂൾബാറിലെ ചിഹ്നമോ ഫയൽ ടാബോ ക്ലിക്കുചെയ്ത് ഞങ്ങൾ ഒരു ഫംഗ്ഷൻ ഫയൽ തുറക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യേണ്ടതുണ്ട് കീവേഡ് ഫംഗ്ഷനും ഇൻപുട്ട് ആർഗ്യുമെന്റുകളും ഫംഗ്ഷനുള്ളിൽ ടൈപ്പുചെയ് തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും നടപ്പിലാക്കേണ്ട സാധുവായ ആർ സ്റ്റേറ്റ് മെന്റുകൾ ആയിരിക്കണം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫംഗ്ഷൻ ഫയൽ സംരക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ ഫയൽ ലോഡുചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ കഴിയുന്ന ഫംഗ്ഷൻ ഫയൽ ലോഡുചെയ്തുകഴിഞ്ഞാൽ ഉറവിട ബട്ടൺ ഉപയോഗിച്ച് ഫംഗ്ഷൻ ഫയൽ ലോഡുചെയ്യേണ്ടതുണ്ട് ശരിയായ ഇൻ പുട്ടുകൾ ഉപയോഗിച്ച് ഫയൽ ചെയ്യുക അതുവഴി നിങ്ങൾ ഫംഗ്ഷൻ ശരിയായി എക്സിക്യൂട്ട് ചെയ്യും ആവശ്യമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഫംഗ്ഷൻ നിർവചനത്തിനുള്ളിൽ എന്തെങ്കിലും മാറ്റുമ്പോഴെല്ലാം ഞങ്ങൾ ഫംഗ്ഷൻ ഫയൽ ലോഡുചെയ്യേണ്ട ഒരു അന്തിമ വാക്ക് ഒന്നുകിൽ നിങ്ങൾ ആർ സ്റ്റുഡിയോ പുനരാരംഭിക്കുകയോ ഫംഗ്ഷൻ ഫയലിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുക നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പിശക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശരിയായ ഔട്ട്പുട്ട്കൾ ലഭിക്കില്ല കാരണം നിങ്ങൾ ഫംഗ്ഷൻ നിർവചനത്തിൽ എന്തെങ്കിലും മാറ്റുകയും യഥാർത്ഥ പതിപ്പ് സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നില്ല യഥാർത്ഥ പതിപ്പ് സംരക്ഷിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫംഗ്ഷൻ അഭ്യർത്ഥിക്കണം അടുത്ത പ്രഭാഷണത്തിൽ ഒന്നിലധികം ഇൻപുട്ടുകളും ഒന്നിലധികം ഔട്ട്പുട്ട്കളും ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു